ഇവിടെ ഈ സമവാക്യ സമ്പ്രദായം വന്നിരിക്കുന്നത് അതിനാൽ എനിക്ക് ഉണ്ട് ഇത് നമുക്ക് മുഴുവൻ സമവാക്യങ്ങളും എന്ന രീതിയിൽ തരുന്നു x എന്നത് മുതൽ വരെ ഉള്ള കോളം വക്ടർ ആണ് b ഇൻസിഡന്റ് ഫീൽഡ് ന്റെ പല പോയിന്റ് കളിലെ കോളം വെക്ടർആണ് അതിനാൽ ഇപ്പോൾ ഇവിടെയുള്ള യഥാർത്ഥ പ്രശ്നം ഇപ്പോൾ കണ്ടെത്തണമെങ്കിൽ നിങ്ങൾക്ക് മിക്കവാറും എല്ലാം അറിയാംഇതാണ് നിലവിലെ ഉറവിടം ഞാൻ ഇവിടെ നിൽക്കുന്നു ഇതാണ് എന്റെ സ്ഥാനം ഞാൻ അളക്കാൻ ആഗ്രഹിക്കുന്ന ഫീൽഡ് ഏതാണ് ഞാൻ എഴുതും ഇപ്പോൾ എനിക്ക് ഇപ്പോൾ അറിയാവുന്ന ഈ അവിഭാജ്യഘടകങ്ങൾ ശരിയാണെന്ന് എനിക്കറിയാം ഞാൻ മുമ്പത്തെ ഘട്ടത്തിലായിരുന്നതിനാൽ എനിക്ക് എല്ലാം അറിയാം ഞാൻ പരിഹരിച്ചു ഡൊമെയ്നിനുള്ളിൽ എന്റെ E ലഭിച്ചു ഈ ഏകീകരണം എല്ലാം ആയിരുന്നു അതിനാൽ ഈ മുഴുവൻ കാര്യവും അറിയപ്പെടുന്നു അതിനാൽ എനിക്ക് ലഭിച്ചത് സംഭവവും ചിതറിക്കിടക്കുന്നതുമാണ് എനിക്ക് ആകെ നൽകുന്നത് വിദ്യാർത്ഥി ഇപ്പോൾ അതെ ഈ പദപ്രയോഗത്തിൽ ഇവിടെയള്ളത് ഉം ആണ് തീർച്ചയായും സംയോജനത്തിന്റെ മേഖല ശരിയാണെന്ന് കാണിക്കുന്നു അതിനാൽ ഇത് ശരിയായ രണ്ടാം ഘട്ടമാണ് ഇത് സ്റ്റെപ്പ് 2 ആയിരുന്നു ഞങ്ങൾ ഇവിടെ ചെയ്തത് സ്റ്റെപ്പ് 1 ആയിരുന്നു വിദ്യാർത്ഥി അതായത് നമ്മൾ E ഇന്റഗ്രേഷൻ e c e r W of r prime മുകളിൽ അല്ലെ അതെ ഇതിന് മാറ്റമില്ല വിദ്യാർത്ഥി E1 അതിനാൽ ആശയക്കുഴപ്പം സമവാക്യം യഥാർത്ഥത്തിൽ ഒന്നുതന്നെയാണ് എനിക്ക് ഘട്ടം 1 നും ഘട്ടം 2 നും ഒരേ സമവാക്യമുണ്ട് ഈ സമവാക്യങ്ങളിലെ ഒരേയൊരു വ്യത്യാസം ഞാൻ മാറ്റുന്നത് സമവാക്യം തന്നെയാണ് എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് r ആണ് r ഇവിടെ പ്രത്യക്ഷപ്പെടുന്നു ഇവിടെയും ഇവിടെയും ആവശ്യമുള്ളത് പരിഹരിക്കാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ ഇത് ഒരിക്കലും മാറില്ല അതിനാൽ r ഇവിടെയും ഉള്ളതാണെന്ന് ഞാൻ ഉറപ്പാക്കേണ്ടതുണ്ട് ഘട്ടം 1 ൽ ഞാൻ r നെ സ്റ്റെപ്പ് 2 ൽ പെടുന്നു കാരണം അത് എന്റെ താൽപ്പര്യമുള്ള മേഖലയാണ് എന്നാൽ ഇതിനുള്ളിൽ ഒരിക്കലും മാറ്റമില്ല എപ്പോഴും പെടുന്നു അതിനാൽ ഇപ്പോൾ എനിക്ക് എല്ലാം അറിയാം വാസ്തവത്തിൽ ഘട്ടം 2 വിലയിരുത്തുമ്പോൾ ഏകത്വത്തിന്റെ പ്രശ്നമില്ല കാരണം r എപ്പോഴും ഇവിടെ പുറത്താണ് അതിനാൽ നിങ്ങൾ എല്ലായ്പ്പോഴും ഈ പൾസിൽ നിന്നുള്ള ദൂരം നോക്കുന്നു പിന്നെ ഈ പൾസ് പിന്നെ ഇത് പിന്നെ ഈ പൾസ് ഇതാണ് ഏകീകരണത്തിന്റെ മേഖല വിദ്യാർത്ഥി 0 ആണെങ്കിലും ശരി നിങ്ങൾ r ഉള്ളിൽ ഇടുകയാണെങ്കിൽ നിങ്ങളുടേതായ സമവാക്യങ്ങളിലൊന്ന് നിങ്ങൾക്ക് തിരികെ ലഭിക്കും വിദ്യാർത്ഥി അതെ ഇതിനകം ഉപയോഗിച്ചു അതിനാൽ അത് ശരി ചെയ്യുന്നത് അനാവശ്യമാണ് ഇത് വോളിയം ഇന്റഗ്രൽ സമവാക്യങ്ങളിലൂടെയുള്ള വളരെ പെട്ടെന്നുള്ള ഓട്ടമായിരുന്നു കാരണം എല്ലാ നിർമ്മാണ ബ്ലോക്കുകളും ഞങ്ങൾക്കറിയാമെന്നതിനാൽ ഞാൻ കുറച്ച് വേഗത്തിൽ പോയി ഹെൽംഹോൾട്ട്സ് സമവാക്യം ഞങ്ങൾക്കറിയാം ഗ്രീനിന്റെ പ്രവർത്തനം ശരിയാണെന്ന് ഞങ്ങൾക്കറിയാം നിങ്ങൾ എങ്ങനെ വ്യതിരിക്തതകൾ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾ മൂന്ന് ബിൽഡിംഗ് ബ്ലോക്കുകൾക്ക് മുകളിലൂടെ പോകുമ്പോൾ ഞങ്ങൾ ഇപ്പോൾ വാങ്ങിയത് ശരിയാണ് ഈ വോളിയം ഇന്റഗ്രൽ ഫോർമുലേഷനുകൾ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്റെ പ്രശ്നം യഥാർത്ഥത്തിൽ വൈവിധ്യമാർന്നതായിരിക്കുമ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് സംഭവ ഫീൽഡ് ആഹ് ആയിരിക്കും സമവാക്യങ്ങൾ ഒരേ ഘട്ടമാണ് 1 ഘട്ടം 2 സമവാക്യങ്ങൾ സമാനമാണ് നിങ്ങൾ എവിടെ r ഇട്ടാലും അത് ഉള്ളതാണോ അതോ അത് ഒരു സംഖ്യാ മൂല്യമാണോ എന്ന് നിങ്ങൾ കണക്കാക്കുന്നു ഘട്ടം 1 ലും ഘട്ടം 2 ലും ഇത് വ്യത്യസ്തമായിരിക്കും കാരണം ഘട്ടം 1 r ൽ ഉൾപ്പെട്ടതാണ് അതിനാൽ നിങ്ങൾ ഉള്ളിൽ കണ്ടെത്തും ഘട്ടം 2 ൽ നിങ്ങൾ നിരീക്ഷകന്റെ കണ്ടെത്തും വിദ്യാർത്ഥി അങ്ങനെ അതിനാൽ ഇവിടെയുള്ള ഗ്രിഡിനെക്കുറിച്ചുള്ള ചോദ്യം അതിനാൽ ഈ ഗ്രിഡിനെക്കുറിച്ചുള്ള ദ്രുത വ്യക്തത ഇവിടെ ഞാൻ എന്താണ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ ഈ സമവാക്യം നോക്കാം പ്രത്യേകിച്ചും ഞങ്ങൾ ഈ സമഗ്രതയിലേക്ക് നോക്കുന്നു ഞാൻ പരിശോധന നടത്തുമ്പോൾ നിങ്ങൾ സമ്മതിക്കുന്ന ഈ പദപ്രയോഗം ശരിയാകും അതിനാൽ ഇവിടെ ഈ ഗ്രീൻ ഫംഗ്ഷൻ സ്ഥിരമായി നടക്കുന്നു കാരണം സംയോജനത്തിന്റെ മേഖലയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സംയോജനത്തിന്റെ വേരിയബിൾ എന്റെ പ്രധാന കോർഡിനേറ്റ് ആണ് അതിനാൽ ഇവിടെ ഉറപ്പിച്ചിരിക്കുന്നു N പൾസുകളുടെ സംഗ്രഹം ബ്രേക്ക്അപ്പ് ചെയ്യാൻ അനുവദിച്ചിരിക്കുന്നു അതിനാൽ 1 പൾസ് ഒന്നിനുപുറകെ ഒന്നായി അതിനാൽ ഞാൻ എടുക്കുമ്പോൾ ഇവിടെയുള്ള ആറാമത്തെ പൾസ് ഈ പൾസിനെക്കാൾ വ്യത്യാസപ്പെടുന്നുവെന്ന് പറയാം വിഷമിക്കേണ്ട കാര്യമില്ല ഈ പൾസിന് മേൽ വ്യത്യസ്തമാണ് നിശ്ചയിച്ചിരിക്കുന്നത് പ്രശ്നമില്ല ഞാൻ ഇത് കണക്കാക്കുന്നു പക്ഷേ ഈ സംഗ്രഹം എല്ലാ പൾസുകളെയും മറികടക്കുന്നു ഒരു ഘട്ടത്തിൽ അത് എവിടെയോ ജീവിക്കുന്നതോ ആയ പൾസ് നമ്പർ 1 ലേക്ക് തിരികെ വരും വിദ്യാർത്ഥി അതിനാൽ വ്യത്യസ്തമായ അല്ലെങ്കിൽ ഒരു പ്രത്യേക പൾസ് മാത്രം മൊത്തത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു പക്ഷേ മുഴുവനായും പൾസുകളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു അതിനാൽ എനിക്ക് പൾസ് അനുസരിച്ച് പൾസ് പോകണം അങ്ങനെയാണ് ഞാൻ ഇത് വിഭജിക്കുന്നത് അതെ ഇത് അവസാന സ്ലൈഡാണ് അതിനാൽ ഘട്ടം 2 ൽ വിദ്യാർത്ഥി അതെ നിങ്ങൾ ഇന്റഗ്രൽ കണക്കാക്കുമ്പോൾ വിദ്യാർത്ഥി അങ്ങനെ അതിനാൽ ഇവിടെ കൃത്യമായി ഇവിടെയാണ് ഞങ്ങൾ പകരം വയ്ക്കുന്നത് ഇപ്പോൾ ഇത് അറിയപ്പെടുന്നു വിദ്യാർത്ഥി അതിനാൽ അടിസ്ഥാനപരമായി നിങ്ങൾക്ക് പുതിയ ഭാഗത്ത് ഒരു എടുക്കൽ അറിയാൻ കഴിയും ഇതിനുശേഷം ഏത് ഘട്ടത്തിലും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അറിയാൻ കഴിയും വിദ്യാർത്ഥി അതിനാൽ ഞങ്ങൾ അസംബ്ലി പറയുന്നു സമചതുര സംയോജിത ഏകദേശം അതെ അതിനാൽ നിങ്ങൾ ഒരേ സ്ക്വയർ ഗ്രിഡ് ഉപയോഗിക്കുന്നു സ്ക്വയർ ടു സർക്കിൾ ഗ്രിഡ് ഏകദേശ കണക്ക് നിങ്ങൾ ഈ അവിഭാജ്യ അവകാശം എവിടെയാണ് വിലയിരുത്തേണ്ടത് എന്നത് മാറ്റില്ല നിരീക്ഷകന്റെ സ്ഥാനം മാറുന്നതിനനുസരിച്ച് മാറുന്ന ഒരേയൊരു കാര്യം ഈ ഗ്രീനിന്റെ പ്രവർത്തനമാണ് അത് മാറ്റാൻ നിങ്ങളെ അനുവദിക്കുക എന്നതാണ് വിദ്യാർത്ഥി അതെ നന്നായി കൈ അവർ മാറില്ല ചി ഡൊമെയ്നിന്റേതാണ് അതിനാൽ നമ്മൾ അതേപടി നിലനിൽക്കും അതിൽ പൂജ്യമല്ല അതിനാൽ ഈ പദപ്രയോഗത്തിലെ r നെ ആശ്രയിക്കുന്ന ഒരേയൊരു കാര്യം മാറുന്നത് നമ്മൾ അതേപടി തുടരും വിദ്യാർത്ഥി എപ്പോൾ വരുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതെ അതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് വരുന്നത് വിദ്യാർത്ഥി കോമ ആർ ഇൻ Comma r in ഇല്ല ഇവിടെ ഇത് ഞാൻ ഇന്റഗ്രൽ വിലയിരുത്തിയ ശേഷം ഇതിന് തുല്യമായി മാറുന്നു ഇതാണ് ഇപ്പോൾ ഇവിടെയുള്ള ഏകീകരണം വ്യത്യസ്തമാണ് വലത് ഞാൻ ഒരു പുതിയ സ്കെയിലർ വേരിയബിളിലേക്ക് ഇന്റർമീഡിയറ്റ് ഞാൻ അതിനെ വിളിച്ചു അതിനാൽ ഇത് ഇതായി മാറി വിദ്യാർത്ഥി അതിനാൽ ഇവിടെ അറിയപ്പെടുന്നത് അപ്പോൾ അറിയപ്പെടുന്നത് അതെ നിങ്ങൾ അതിനാൽ എനിക്ക് ഇത് പദത്തിൽ എഴുതാം തുടർന്ന് ലേക്ക് പരിവർത്തനം ചെയ്യപ്പെടും ഇതൊരു വെക്റ്റർ ആണെന്ന് ഇവിടെ ഓർക്കുക അതിനാൽ 2 ഡൈമൻഷണൽ ഇന്റഗ്രേഷൻ ഞാൻ അതിനെ 2 സ്കെലാർ പദങ്ങളായി വിഭജിച്ചു ധ്രുവീയ കോർഡിനേറ്റുകളിൽ ഏത് പൾസിന്റെ പൾസ് പരിഗണിക്കാതെ തന്നെ സംയോജനത്തിന്റെ പരിധികൾ ഒന്നുമല്ല കാരണം മുഴുവൻ പൾസിലും സംയോജിപ്പിക്കേണ്ടതുണ്ട് Student അതിനാൽ ഇവിടെ കാണുമ്പോൾ സ്ഥിരമായി പിടിക്കപ്പെടുന്നു അതിനാൽ ഇത് വിദ്യാർത്ഥി അതിനാൽ ഞങ്ങൾ എഴുതുന്നു അതെ ഞാൻ കാണുന്നു അതിനാൽ അതെ ഇവിടെ ഞാൻ അതേ പൾസിൽ സംയോജിപ്പിക്കുന്നതായി തോന്നുന്നു അതെ എന്നാൽ ഞാൻ ഏത് പൾസ് ശരിയാണ് എന്നതിനെ ആശ്രയിച്ച് ഇതിൽ ഒരു ഓഫ്സെറ്റ് ഉണ്ടാകും വിദ്യാർത്ഥി ഇത് ബെസൽ ഫംഗ്ഷനിൽ ഓഫ്സെറ്റ് ചെയ്യണം ബെസൽ ഫംഗ്ഷനിൽ തന്നെ അത് ഓഫ്സെറ്റ് ചെയ്യണം അതിനാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അത് ലഭിക്കും അതിനാൽ എല്ലാം ഇവിടെയുണ്ട് വിദ്യാർത്ഥി അതെ അതിനാൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും ചിന്തിക്കാം അതെ അതെ അതിനാൽ ആ ഇന്റർമീഡിയറ്റ് ഘട്ടങ്ങൾ ഞങ്ങൾ ഇടയിൽ ഒഴിവാക്കി അതിനാൽ പീറ്റേഴ്സന്റെ പുസ്തകത്തിന്റെ 2 5 ാം അധ്യായമാണ് ഞങ്ങളുടെ പക്കലുള്ള റഫറൻസുകൾ ഇവയാണ് വളരെ നല്ല പുസ്തകമാണ് ഉപരിതല അവിഭാജ്യമാണ് ഞങ്ങൾക്ക് അധ്യായം 8 ഉണ്ടായിരുന്നു അടിസ്ഥാന സിദ്ധാന്തത്തിന് ഞങ്ങൾ ഈ കേസുകൾ പരാമർശിക്കുന്നത് ശരിയാണ്